ഡിസാസ്റ്റർ റിക്കവറി ആൻഡ് ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന കോഴ്സിലേക്ക് സ്വാഗതം എന്റെ പേര് രാം സതീഷ് ഞാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി റൂർക്കിയിലെ ആർക്കിടെക്ചർ ആന്റ് പ്ലാനിംഗ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഇന്ന് ഞാൻ തുർക്കിയിലെ സ്വയം സഹായ ഭവനത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഹസ്സനും കാസിഡി ജോൺസണും ചേർന്ന് രചിച്ച ഒരു അധ്യായത്തിൽ നിന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രത്യേക പ്രഭാഷണം തയ്യാറാക്കിയത് അത് എഡിറ്റ് ചെയ്തത് മൈക്കൽ ലിയോണും തിയോ ഷിൽഡർമാനും കാമിലോ ബോണോയും ചേർന്നാണ് അതിനാൽ ഇത് തുർക്കിയിലെ ഒരു പ്രത്യേക ഭൂമിശാസ്ത്രപരമായ വശത്തെ കേന്ദ്രീകരിക്കുന്നു തുർക്കി ഭൂകമ്പത്തിന് സാധ്യതയുള്ളതാണെന്ന് നിങ്ങളിൽ പലർക്കും അറിയാം അടിക്കടിയുള്ള ഭൂകമ്പങ്ങളും തുർക്കിയുടെ ചില ഭാഗങ്ങളും തെറ്റായ രേഖയിൽ കിടക്കുന്നു അതിനാൽ പുനർനിർമ്മാണ സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രത്യേകിച്ച് സ്വയം സഹായ ഭവന വശം അതിനാൽ രചയിതാക്കൾ 1999 ലെ മർമര ഭൂകമ്പം തുർക്കി Marmara earthquake Turkey കൊണ്ടുവന്നു 17480 പേരുടെ മരണത്തിനിടയാക്കിയ ഈ 7 4 റിക്ടർ സ്കെയിലിലെ ഭൂകമ്പത്തിന്റെ വലിയ നാശമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അതിനാൽ ഒരു ഭൂകമ്പം ഉണ്ടാകുമ്പോൾ വസ്തുവകകളുടെ നാശനഷ്ടം അടിസ്ഥാന സൌകര്യങ്ങളുടെ വലിയ നാശനഷ്ടങ്ങൾ എന്നിവ ഉണ്ടാകുന്നു എന്ന് നിങ്ങൾക്കറിയാം അതാണ് ഒരാൾക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയുന്നത് 1970 മുതൽ തുർക്കിയിൽ ഉണ്ടായ പ്രധാന ഭൂകമ്പങ്ങളുടെ കാലാനുസൃതമായ വശങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ Gediz മുതൽ ഏകദേശം 7 2 റിക്ടർ സ്കെയിലുകൾ വരെ രേഖപ്പെടുത്തിയ ശേഷം വീണ്ടും 1992 ൽ സമാനമായ ഭൂകമ്പം അതെ തോതിൽ ലഭിക്കുന്നു 1999ൽ ഏകദേശം 7 2 റിക്ടർ സ്കെയിലിൽ വൻതോതിൽ തകർന്ന വീടുകളുടെ നാശനഷ്ടം ഏകദേശം 15000 ആയിരുന്നു കൊക്കയിലി ഭൂകമ്പത്തിൽ ഇതേ ആഗസ്റ്റ് 17 ലും നവംബറിലും ഇവിടെ 1998 1999 ഇതേ അവസ്ഥ ഉണ്ടായി അദാന മേഖലയെയും കൊക്കയിലി പ്രവിശ്യയെയും ഡസ്സെ പ്രവിശ്യകളെയും ബാധിച്ചു 50000 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും 15൦൦൦ മുതൽ ഏകദേശം 655000 പേർക്ക് ഭവനരഹിതരാകുന്നതായും നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഡാറ്റ തുർക്കിയിൽ നമുക്കുണ്ട് അവർക്ക് ഒരു ദുരന്തനിയമമുണ്ട് ദുരന്താനന്തര പ്രവർത്തനങ്ങളുടെ നടത്തിപ്പിന്റെ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനായിരിക്കണമെന്നും അടിസ്ഥാനപരമായി ഈ പ്രത്യേക അധികാരം അവർ ഏൽപ്പിക്കണമെന്നും നിയമം നമ്പർ 7 പ്രസ്താവിക്കുന്നു ദുരന്ത ബാധിത മേഖലയിലെ പ്രവിശ്യാ ഗവർണർമാരിൽ അവർ ഇതിനെ കൈമകം എന്ന് വിളിക്കുന്നു അതിനാൽ ഈ നിയമത്തിന് കീഴിൽ അവർ നോക്കിയ 2 വിഭാഗങ്ങളുണ്ട് ഒന്ന് ദുരന്തത്തിന്റെ ആഘാതം കഴിഞ്ഞയുടനെ ഹ്രസ്വകാല വീണ്ടെടുക്കൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുനരധിവാസത്തിന്റെ ഭാഗമായ താൽക്കാലിക ഷെൽട്ടറുകൾ കൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള താൽക്കാലിക പാർപ്പിടങ്ങൾ എന്നിവ ഉൾപ്പെട്ടേക്കാവുന്ന അടിയന്തര സഹായമാണ് ഈ വിഭാഗത്തിന് കീഴിൽ രണ്ടാമത്തെ വശം കെട്ടിട നിർമ്മാണമാണ് ശാശ്വതമോ ദീർഘകാലമോ ആയ ഭവന പുനർനിർമ്മാണവും തകർന്ന കെട്ടിടങ്ങളുടെ ബലപ്പെടുത്തലും പുനർനിർമ്മാണവും കെട്ടിട നിർമ്മാണത്തിൽ പെടുന്നു കൂടാതെ സീറ്റു പ്രോസസ്സിലൂടെ സ്ഥലം മാറ്റണമോ എന്നതിലെ ചില സുപ്രധാന തീരുമാനങ്ങളും എടുക്കുന്നു കേന്ദ്ര സർക്കാർ നോക്കുന്നത് ഈ രണ്ട് വിഭാഗങ്ങളെയാണ് തുടർന്ന് നാശനഷ്ടം വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ആർക്കൊക്കെ പുതിയ വീട് ലഭിക്കാൻ അർഹതയുണ്ടാകും അതിനാൽ അവർ ഒരു മാനദണ്ഡം സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഈ നിയമം പ്രസ്താവിക്കുന്നു ഒരാൾക്ക് നിയമപരവും നിയമവിരുദ്ധവുമായ നിർമ്മാണങ്ങൾക്ക് യോഗ്യത നേടാം അതായത് അനൌപചാരികമായ സെറ്റിൽമെന്റുകൾ നശിപ്പിക്കപ്പെടുമ്പോൾ അത് കാലാവധിയുള്ളതോ അല്ലാത്തതോ ആണെങ്കിൽ വീടുകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിക്കുകയോ തകരുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് പുതിയ വീടിനുള്ള യോഗ്യതയുണ്ട് അതിനാൽ നാശനഷ്ടത്തിന്റെ തീവ്രതയും പരിഗണിക്കപ്പെടുന്നു ഉടമ സ്ഥിരമായ പുനർനിർമ്മാണത്തിന് പോകുകയാണെങ്കിൽ അത് ഒരുതരം പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെയോ വായ്പയിലേക്കോ ആണെങ്കിൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് സൌകര്യങ്ങൾ ആണെങ്കിൽ ഉദാഹരണത്തിന് 20 വർഷത്തിനുള്ളിൽ തിരിച്ചടവ് നിബന്ധനകൾ പാലിക്കാൻ ഉടമയ്ക്ക് കഴിയണം അങ്ങനെ നിങ്ങൾക്ക് ചില ഭവന പദ്ധതികൾ സ്ഥാപിക്കാം അങ്ങനെ അയാൾക്ക് ഗഡുക്കളായി അടക്കാനും 20 വർഷമോ അതിൽ കൂടുതലോ അവർക്കും ആ കഴിവ് ലഭിക്കും പ്രത്യേകിച്ചും 1999 ലെ ഈ വലിയ നാശം കാരണം ഈ പ്രത്യേക നിയമം 2000 ആണ്ടിൽ അത് ഭേദഗതി ചെയ്യപ്പെട്ടു ഇവിടെയാണ് മുനിസിപ്പൽ അതിർത്തിക്ക് പുറത്ത് താമസിക്കുന്ന ഗ്രാമീണ മേഖലയിലെ വീട്ടുടമസ്ഥർക്ക് ഇപ്പോഴും സംസ്ഥാന സഹായത്തിന് അർഹതയുള്ളത് അതായത് അങ്ങനെ സംസ്ഥാനവുമായി സഹകരിച്ച് ഒരു കേന്ദ്ര തലം ഗ്രാമീണ മേഖലകളിൽ താമസിക്കുന്ന വീട്ടുടമസ്ഥരെ യഥാർത്ഥത്തിൽ അങ്ങനെ പരിഗണിച്ചു അതിനാൽ ഇവിടെ മുനിസിപ്പൽ കെട്ടിട നിർമ്മാണ മേൽനോട്ടം നിലനിൽക്കുന്നിടത്ത് ഇൻഷ്വർ ചെയ്യേണ്ടതുണ്ട് അതിനാൽ നഗരപ്രദേശങ്ങളിലെയും മുനിസിപ്പൽ മേൽനോട്ടത്തിലുള്ളതുമായ വീടുകൾ ഇൻഷ്വർ ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഇൻഷുറൻസ് പോളിസികളും കരട് തയ്യാറാക്കാൻ തുടങ്ങി ഇത് ടർക്കിഷ് ദുരന്ത ഇൻഷുറൻസ് പൂളിന് കീഴിലാണ് അതിനാൽ അവർക്ക് നഷ്ടപരിഹാരം ലഭിക്കും അതിനാൽ ആ രീതിയിൽ ഇൻഷുറൻസ് ഇൻഷുറൻസ് എന്ന ആശയം ഹൌസിംഗ് ഇൻഷുറൻസിൽ നിന്ന് പ്രത്യേകിച്ച് ഡിസാസ്റ്റർ ആക്റ്റിന് വേണ്ടി നിക്ഷേപിക്കാം അതിലൂടെ അവർക്ക് പുതിയത് നിർമ്മിക്കുന്നതിനോ അല്ലെങ്കിൽ ആ കെട്ടിടം പുതുക്കിപ്പണിയുന്നതിനോ കുറച്ച് നഷ്ടപരിഹാരം ലഭിക്കും അങ്ങനെയാണ് ഈ പ്രത്യേക നയം ചിന്തിച്ചത് തുർക്കിയിലെ ഏറ്റവും സാധാരണമായ വശം നമ്മൾ കാണുന്നത് സ്ഥലം മാറ്റമാണ് ഈ സ്ഥലം മാറ്റത്തിൽ ഒരാൾക്ക് എങ്ങനെ തീരുമാനമെടുക്കാം അവർ നോക്കിയ പ്രധാനപ്പെട്ട മൂന്ന് മാനദണ്ഡങ്ങളിൽ ഒന്ന് പഴയ ലൊക്കേഷൻ ഭാവിയിലെ ദുരന്തത്തിന് അപകടസാധ്യതയുള്ളപ്പോൾ ആ പ്രത്യേക പഴയ സ്ഥലം സാധ്യതയുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ അത് കൃത്യമായി ഫോൾട്ട് ലൈനിൽ സ്ഥിതിചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അത് ദുർബലമായ സ്ഥലത്ത് ആണെങ്കിൽ അവിടെയാണ് സ്ഥിതിചെയ്യുന്നത് എന്ന് സങ്കൽപ്പിക്കുക അപ്പോൾ ആ സ്ഥാലം മാറേണ്ടതാണ് പഴയ ലൊക്കേഷൻ പൂർണ്ണമായും നശിപ്പിക്കപ്പെടുമ്പോൾ അത് ഇതിനകം തന്നെ ആണെങ്കിൽ അതിനാൽ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് അതേ സൈറ്റിൽ പുനർനിർമിക്കാൻ വളരെയധികം സമയമെടുക്കും ഇത് ഒരു വലിയ വസ്തുവാണെന്ന് സങ്കൽപ്പിക്കുക ഇതിന് 6 7 മാസം എടുത്തേക്കാം മുഴുവൻ അവശിഷ്ടങ്ങളും എടുക്കാൻ അങ്ങനെയെങ്കിൽ അവിടെയാണ് അവർക്ക് ഒരു സ്ഥലംമാറ്റം തേടാൻ കഴിയുക അങ്ങനെ അവർക്ക് താൽക്കാലികമായി അതിനുള്ള പ്ലേസ് കണ്ടെത്താനാകും അല്ലെങ്കിൽ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലേക്ക് മാറാൻ അവസരമുണ്ടാകുമ്പോൾ ഇത് വളരെ സാധാരണമാണ് ഇത് കൂടുതലും തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ ഭൂമി വാങ്ങുന്നതിന് സർക്കാർ പണം നൽകേണ്ടതില്ല ഇതാണ് അവർ നിലവിലുള്ള സർക്കാരിനെ അന്വേഷിക്കുന്നത് ഭൂമി അതിനാൽ മാറ്റി സ്ഥാപിക്കാൻ ഭൂമി ലഭ്യമാണെങ്കിൽ അത് സർക്കാർ ഭൂമിയാണെങ്കിൽ അവർ അതിനാണ് മുൻഗണന നൽകുന്നത് ടർക്കിയിൽ സംഭരണത്തിന് 2 വ്യത്യസ്ത രീതികളുണ്ട് ഒന്ന് ബഹുജന പാർപ്പിടവും സ്വയം സഹായ ഭവനവുമാണ് ഒരു ബഹുജന ഭവനം എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് ചർച്ച ചെയ്യാം ഈ പ്രക്രിയയിൽ സർക്കാർ ഭൂമി ഏറ്റെടുക്കുന്നു ഇവിടെ അത് പൊതുമരാമത്ത് സേവന മന്ത്രാലയമാണ് ഇപ്പോൾ മന്ത്രി അതിന്റെ പേര് മാറ്റി പരിസ്ഥിതി നഗരാസൂത്രണ മന്ത്രി ഡിസൈൻ സവിശേഷതകളും ചെലവ് കണക്കാക്കലും നൽകുന്നു ഭൂമിയുടെ ലഭ്യതയും സുരക്ഷയും അനുസരിച്ചാണ് ഈ സ്ഥലങ്ങൾ നിർണ്ണയിക്കുന്നത് ഭൂകമ്പ സാധ്യത കണക്കിലെടുത്ത് ഇത് ഒരു ഭൂപ്രദേശമാണ് ഏത് തരത്തിലുള്ള ഭൂമിശാസ്ത്രപരമായ സാഹചര്യങ്ങളാണ് നിലനിൽക്കേണ്ടത് അടിസ്ഥാനപരമായി സർവേയർമാർ വിവരങ്ങൾ നൽകുന്നു അങ്ങനെയാണ് ഈ പിണ്ഡം അവർ തീരുമാനിക്കുന്നതും വികസന പദ്ധതികൾ തീരുമാനിക്കുന്നതും അല്ലാതെ എവിടെയാണ് ഒരു കരാർ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിലെ കരാറുകാരാണെങ്കിൽ അവർ നേരിട്ട് വീട് പണിതു നൽകുന്നു സ്വയം സഹായ ഭവനത്തിൽ കുടുംബങ്ങൾ അവരുടെ സ്വന്തം ഭൂമിയിൽ പുനർനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വഴിയോ അല്ലെങ്കിൽ മാറ്റിസ്ഥാപിക്കപ്പെട്ട ഗ്രാമങ്ങളിലോ ആണ് അതിനാൽ അവർ EYY എന്ന് വിളിക്കുന്നത് പോലെയുള്ള വ്യത്യസ്ത സൌകര്യങ്ങളുണ്ട് കൂടാതെ ഇത് ഒരു തരത്തിലുള്ള വായ്പാ സൌകര്യവുമാണ് ഒരു ഫർണിഷ് ചെയ്ത വീട് വാങ്ങാൻ കുടുംബങ്ങൾ ഉപയോഗിക്കുന്നത് സർക്കാർ ക്രെഡിറ്റ് ആണ് അതിനാൽ അവർ ലോൺ എടുക്കുകയും അവർ വാങ്ങുകയും ചെയ്യുന്നു അതുപോലെ തന്നെ വീടിന്റെ ഡിസൈനുകളും ടെക്നിക്കൽ മാനേജ്മെന്റ് അസിസ്റ്റന്റുമാരും സാധാരണയായി സർക്കാരിൽ നിന്ന് ലഭ്യമാണ് എങ്ങനെ പണിയണം എന്ത് ഘടനാപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കണം അവർ ചിതറിപ്പോകും നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ സ്ഥാപിച്ച് പ്ലിന്ത് ലെവൽ എന്ന് പറയുന്നു ഇതാണ് ഞങ്ങൾ നിങ്ങൾക്ക് പണം എത്തിക്കുന്നത് ഇത് ഒരു വിഡ്ഢിത്തമാണ് ലെവൽ ഇതാണ് ഞങ്ങൾ നിങ്ങൾക്ക് എത്തിക്കുന്നത് തുകയുടെ ഈ ഭാഗം ഇതാണ് സ്ലാബിന്റെ പൂർത്തീകരണം ഇതാണ് തുക അങ്ങനെ അവർ ഘട്ടം ഘട്ടമായും ശതമാനാടിസ്ഥാനത്തിലും അത് പൂർത്തിയാക്കി നൽകുന്നു കൂടാതെ പൊതുമരാമത്ത് സേവന മന്ത്രാലയം ഉടമസ്ഥന്റെ പേരിൽ നിർമ്മാണം നിയന്ത്രിക്കുന്ന ഒരു കെട്ടിട കരാറുകാരനെ നിയമിച്ചേക്കാം അതിനാൽ അത് പ്രക്രിയയാണ് അതേസമയം ബഹുജന ഭവന സമീപനത്തിൽ നിരവധി പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഈ പ്രോജക്റ്റുകൾ പ്രധാനമായും ഒരു പൊതു ഡാറ്റ ഉപയോഗിച്ചാണ് വികസിപ്പിച്ചെടുത്തത് അവർ അതെ കുറിച്ച് മാത്രം സംസാരിക്കുന്നതിനാൽ ഇത്രയധികം വീടുകൾ തകർന്നു ചില വീടുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് പ്രാദേശിക സാഹചര്യം അവർ കാര്യമായി പരിഗണിക്കുന്നില്ല ഏത് തരത്തിലുള്ള പരിസ്ഥിതിയാണ് സമൂഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാം അവർ ഏതുതരം ഉപജീവനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് അവരുടെ ജീവിതത്തെ എന്തെങ്കിലും ബാധിക്കുമോ കുട്ടികളുടെ സ്കൂൾ അന്തരീക്ഷത്തെ ബാധിക്കുമോ അതിനാൽ അത് ഒരു വശമാണ് രണ്ടാമത്തെ വശം അലോക്കേഷൻ പ്രക്രിയയാണ് അതിനാൽ നമ്പർ 56 ഇത് നിങ്ങളുടെ വീട് നമ്പർ 52 എന്നിങ്ങനെയുള്ള ലോട്ടറി രീതിയിലാണ് വീടുകൾ വിതരണം ചെയ്യുന്നത് അതിനാൽ ഏത് തരത്തിലുള്ള സെറ്റിൽമെന്റ് നിലവിലുണ്ടായിരുന്നാലും ഏത് തരത്തിലുള്ള അയൽപക്ക ഫാബ്രിക് നിലവിലുണ്ടായിരുന്നാലും ലോട്ടറി സമീപനം കാരണം അതെല്ലാം പൂർണ്ണമായും നീക്കം ചെയ്യപ്പെട്ടു അതിനാൽ ഇവിടെ യഥാർത്ഥത്തിൽ സാമൂഹിക ബന്ധനങ്ങളെ തകർക്കുന്നു കാരണം ആരാണ് പഴയ സെറ്റിൽമെന്റിൽ താമസിച്ചിരുന്നത് ഇപ്പോൾ അവർ മറ്റേതെങ്കിലും ഗ്രൂപ്പിനൊപ്പം ജീവിച്ചേക്കാം അവർ തികച്ചും വ്യത്യസ്തമായ സമൂഹത്തിൽ അവസാനിച്ചേക്കാം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ചെറിയ ക്രമീകരണ പ്രക്രിയയും ഇതിലുണ്ട് അത് വ്യത്യസ്ത അപരിചിതർക്കിടയിൽ ചില സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നു ചില ആളുകൾക്ക് ഇത് നല്ലതാണ് എന്നാൽ ചില ആളുകൾക്ക് വ്യത്യസ്ത മതപരവും ജീവിതരീതിയും ഉള്ളവർക്ക് ഇത് വളരെ സമയമെടുക്കും പദ്ധതി ആസൂത്രണ പ്രക്രിയയിൽ ദുരന്ത ബാധിധരുമായി കൂടിയാലോചിക്കാത്തതിനാൽ ബാധിത കമ്മ്യൂണിറ്റികളുടെ മുൻഗണനകളും ആവശ്യങ്ങളും അവഗണിക്കുന്നു ഏതെങ്കിലുമൊരു സ്ത്രീ മരിച്ചുവെന്ന് സങ്കൽപ്പിക്കുക അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ചില സ്ത്രീ കുട്ടികളോടൊപ്പം തനിച്ചാണ് ഒരു ഭർത്താവ് ഭൂകമ്പത്തിൽ മരിച്ചാൽ അയാൾ ഒരു ബിസിനസുകാരനായിരുന്നുവെങ്കിൽ അവന്റെ ബിസിനസ്സ് നഷ്ടപ്പെടുകയാണെങ്കിൽ ആ സ്ത്രീക്ക് എന്ത് സംഭവിക്കും അതിനർത്ഥം ദുരന്തത്തിന് മുമ്പുള്ള സ്ഥിതിയിൽ നിന്ന് ദുരന്തത്തിന് ശേഷമുള്ള അവസ്ഥയിൽ അവരുടെ സാഹചര്യങ്ങളെല്ലാം മാറിയിരിക്കും അതിനാൽ അവൾക്ക് എന്ത് തരത്തിലുള്ള പിന്തുണയാണ് വേണ്ടതെന്ന് അവർ കണക്കിലെടുക്കില്ല അവൾക്ക് സമീപ പ്രദേശങ്ങളിൽ ഒരു ബാഹ്യ കുടുംബ പിന്തുണ ആവശ്യമാണ് അല്ലെങ്കിൽ അവൾക്ക് നല്ല സുരക്ഷിതമായ അയൽപക്കം ആവശ്യമാണ് അവളുടെ ഉപജീവനമാർഗം എങ്ങനെ നടത്തണമെന്ന് അവൾക്ക് ആവശ്യമാണ് അതിനാൽ ഈ വശങ്ങൾക്കെല്ലാം മുൻഗണന നൽകുന്നില്ല കാരണം അവർ ഒരിക്കലും കൂടിയാലോചിച്ചിട്ടില്ല വീടുകളുടെ രൂപകൽപന പുറത്തുനിന്നുള്ള ആശയവിനിമയം സുഗമമാക്കുന്നില്ല കാരണം ഇവയിൽ ഭൂരിഭാഗവും മൂന്നോ നാലോ ലെവലുകൾ ഉള്ള അപ്പാർട്ട്മെന്റ് മോഡലുകളിലേക്ക് പോകുന്നു ഇപ്പോൾ അവർ ഗോവണിപ്പടികളിലൂടെ പോകുന്നു എന്നാൽ നേരത്തെ അവർ മറ്റൊരു സജ്ജീകരണത്തിൽ ജീവിച്ചിരിക്കാം അങ്ങനെ സാമൂഹികവൽക്കരണ പ്രക്രിയയും ക്രമേണ ദുർബലമാകുന്നു ഈ വീടുകൾക്കുള്ള പേയ്മെന്റുകൾ പലപ്പോഴും വളരെ ഉയർന്നതാണ് പ്രത്യേകിച്ചും നിങ്ങൾക്കറിയാവുന്ന ആളുകൾക്ക് അവർക്ക് താങ്ങാൻ കഴിയില്ല അതിനാൽ ദാരിദ്ര്യത്തിന്റെ അവസ്ഥ മുതൽ അത് അവിടെയാണ് കാരണം അവർക്ക് ചില അധിക തവണകൾ അടയ്ക്കേണ്ടിവരും മെയിന്റനൻസ് ബില്ലുകൾ വ്യക്തിഗത മെയിന്റനൻസ് ബില്ലുകൾ എന്നിവയും അവർ അടയ്ക്കേണ്ടതുണ്ട് അതിനാൽ അവയെല്ലാം കൂട്ടിച്ചേർത്തു ഒരു വലിയ തുകയായി മാറുന്നു ഹൌസിംഗ് യൂണിറ്റുകൾ ഒരേ തുകയ്ക്ക് കാരണമാകുമെങ്കിലും ഗതാഗത ലിങ്കുകളുടെ സാമീപ്യത്തെ ആശ്രയിച്ച് മൂല്യം വ്യത്യാസപ്പെടുന്നു ഞങ്ങൾ 2 3 വ്യത്യസ്ത ക്ലസ്റ്ററുകൾ വികസിപ്പിക്കുകയാണെങ്കിൽ എന്ന് സങ്കല്പിക്കുക ഒരു ക്ലസ്റ്റർ ഹൈവേയോട് വളരെ അടുത്താണെന്ന് പറയാം റോഡ് ശൃംഖലയും മറ്റ് രണ്ടെണ്ണവും ഭൂമിയുടെ ലഭ്യതയെ ആശ്രയിച്ച് ഇന്റീരിയർ വളരെ വ്യക്തവുമാണ് അതിന്റെ മൂല്യം വ്യത്യാസപ്പെട്ടിരിക്കുന്നു റോഡ് ശൃംഖലയ്ക്കോ ഗതാഗത സൌകര്യത്തിനോ റെയിൽവേ സ്റ്റേഷനോ മെട്രോ കോറിഡോറിനോ സമീപം എത്തി ആനുകൂല്യം ലഭിച്ച വ്യക്തി അതിനാൽ അത് അവന്റെ മൂല്യമായിരിക്കും അവന്റെ വസ്തുവകകളുടെ മൂല്യം അകത്തളങ്ങളിൽ താമസിച്ചിരുന്ന ആളേക്കാൾ കൂടുതലാണ് ഞങ്ങൾ സ്വയം സഹായ ഭവന പുനർനിർമ്മാണ രീതി വിലയിരുത്തുമ്പോൾ തുർക്കിയിൽ ആദ്യം ഈ മന്ത്രാലയങ്ങളും ദുരന്തകാര്യ ജനറൽ ഡയറക്ടറും സംസ്ഥാന തലത്തിലെ ലോക്കൽ ഗവർണറും ചേർന്ന് 3 വ്യത്യസ്ത ഓപ്ഷനുകൾ നോക്കുന്നത് കേന്ദ്ര സർക്കാരാണ് ഒന്ന് അവർക്ക് ക്യാഷ് ക്രെഡിറ്റുകൾ നൽകുക വീട്ടുടമസ്ഥന് നേരിട്ട് സാമ്പത്തിക ക്രെഡിറ്റുകൾ നൽകുക അതിനാൽ അവർക്ക് ചെയ്യാൻ കഴിയുന്നത് പ്രോപ്പർട്ടി ഡെവലപ്പറിൽ നിന്ന് അവർക്ക് ഒരു പുതിയ വീട് വാങ്ങുക എന്നതാണ് രണ്ടാമത്തെ വശം ഞങ്ങൾ സാങ്കേതിക പിന്തുണയും ഘട്ടം ഘട്ടമായി നിർമ്മാണത്തിന് ചില പേയ്മെന്റുകളും കൈമാറുന്ന നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് നൽകുന്നു അവൻ വീണ്ടും ഒന്നുകിൽ ഒരു ഗുണഭോക്താവ് നിയന്ത്രിത നിർമ്മാണത്തെ ആശ്രയിക്കുന്നു അല്ലെങ്കിൽ വാടകയ്ക്കെടുക്കുന്ന ബിൽഡിംഗ് കോൺട്രാക്ടർമാരുടെ ഡിസൈനർമാരെ ആശ്രയിക്കാം അതിനാൽ അത് മറ്റൊരു പ്രക്രിയയാണ് ഓപ്ഷൻ 3 ൽ ഇത് പൂർണ്ണമായും സർക്കാർ നിയന്ത്രിത നിർമ്മാണമാണ് അതിനാൽ ഇതിൽ അവർ കരാറുകാരനെ ആശ്രയിക്കുന്നു അതിനാൽ ഏജൻസി പ്രവർത്തിക്കുന്ന പ്രക്രിയ അവർ വീട് പൂർത്തിയാക്കി വീട്ടുടമസ്ഥന് കൈമാറുന്നു അങ്ങനെയാണ് സെൽഫ് ഹൌസ് മെക്കാനിസം സങ്കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഈ പ്രക്രിയയിൽ പോലും പ്രത്യേകിച്ച് പാർപ്പിട പ്രക്രിയയിൽ 2000 ലെ കാൻകിരി ഭൂകമ്പത്തിന് ശേഷം മറ്റ് ചില പോരായ്മകളും ഉണ്ട് ഒന്ന് ഗവൺമെന്റ് വാഗ്ദാനം ചെയ്യുന്ന വീടുകളുടെ ഡിസൈനുകൾക്ക് പ്രാദേശിക ഗ്രാമീണ ജീവിത ശൈലികൾ വളരെ കുറവാണ് കുടുംബങ്ങൾക്ക് അവരുടെ സ്വന്തം ഡിസൈൻ ഉപയോഗിക്കാൻ തിരഞ്ഞെടുക്കാമെങ്കിലും ഇത് ഒരു ആർക്കിടെക്റ്റിനെ നിയമിക്കുന്നു അത് ഉടമ സ്വയം കൈകാര്യം ചെയ്യണം പണം നൽകണം അതിനാൽ കുടുംബത്തിന് സ്വന്തമായി ഡിസൈൻ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നുണ്ടെങ്കിലും ആർക്കിടെക്റ്റിനോ കരാറുകാരനോ പണം നൽകണം ഇവിടെ ഈ പ്രക്രിയയിൽ അവർക്ക് എങ്ങനെ നിർമ്മിക്കാമെന്നതിനെക്കുറിച്ചുള്ള സാങ്കേതിക പിന്തുണയും പരിശീലനം നൽകാനോ മാർഗ്ഗനിർദ്ദേശം നൽകാനോ സർക്കാർ തയ്യാറാണെങ്കിലും ഭൂകമ്പ സുരക്ഷിത നിർമ്മാണങ്ങളെക്കുറിച്ചും രൂപകൽപ്പനയെക്കുറിച്ചും ഉടമകളെ ബോധവൽക്കരിക്കാൻ വളരെ സമയമെടുക്കും കാരണം അത് അവരുടെ സാക്ഷരതാ നിലവാരത്തെ ആശ്രയിച്ചിരിക്കുന്നു സാമൂഹികവും സഹകരണവും അവർ എങ്ങനെ ചർച്ചയിൽ വരുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഗവൺമെന്റുമായി സമ്പർക്കം പുലർത്തുമ്പോൾ അവർക്ക് പ്രോജക്റ്റുകൾ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതിന്റെ ചില മാനേജ്മെന്റ് ടെക്നിക്കുകൾ അവർക്ക് അറിയേണ്ടതുണ്ട് കൂടാതെ പല കേസുകളിലും ചില അടിസ്ഥാന നിക്ഷേപങ്ങളുമായി കരാറുകാർ ഓടിപ്പോകുന്നതും ഒരു ചെറിയ വാക്കാലുള്ള കരാറുകൾ ഉണ്ടാക്കുന്നതും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഉടമകളും അവരും ഓടിപ്പോകുന്നു അങ്ങനെ മുഴുവൻ പദ്ധതിയും അപൂർണ്ണമായി അവശേഷിക്കുന്നു കൂടാതെ സ്ഥലം മാറ്റണമോ അല്ലെങ്കിൽ എവിടേക്ക് മാറ്റണമെന്നോ പ്രത്യേകിച്ച് ഏത് തരത്തിലുള്ള ഇൻപുട്ട് വേണം ഈ പ്രക്രിയയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഉടമകളുടെ പങ്കാളിത്തം ഇല്ല 1999 ലെ ഭൂകമ്പത്തിന് ശേഷം ഡൂസ്സ് പ്രവിശ്യയിൽ കേന്ദ്രങ്ങളിലും ഗ്രാമങ്ങളിലും ജില്ലയിലും നിങ്ങൾക്കറിയാവുന്ന സ്ഥിതിവിവരക്കണക്കുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നാശനഷ്ടങ്ങളുടെ സ്ഥിതിവിവരക്കണക്കുകൾ ഈ പട്ടിക നൽകുന്നതിലാണ് കൂടാതെ കേന്ദ്രസർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ഒന്ന് ഗവൺമെന്റ് ബഹുജന ഭവനനിർമ്മാണ പ്രക്രിയ ഇതിന് യോഗ്യരായ 8004 പേർ മോശമായ കേടുപാടുകൾ സംഭവിച്ചതോ തകർന്ന വീടിന്റെ ഉടമയോ ആകാം കക്ഷി അതുപോലെ തന്നെ സ്വയം സഹായം അത് ഏതാണ്ട് അര ശതമാനത്തിൽ താഴെ മാത്രമായിരുന്നു അവിടെയാണ് മോശമായ കേടുപാടുകൾ സംഭവിച്ചതോ തകർന്നതോ ആയ വീടിന്റെ ഉടമ അതേസമയം 4874 ന്റെ അറ്റകുറ്റപ്പണിയും പുനർനിർമ്മാണ പ്രക്രിയയും പകുതി കേടായ വീടിന്റെ ഉടമയെക്കുറിച്ചാണ് അതായത് പുനർനിർമ്മാണത്തിന് ഇത് സാധ്യമാണ് അതിനാൽ സ്വയം അംഗീകരിച്ച സ്വയം സഹായ വികസന പ്രക്രിയയുടെ അർത്ഥം ടർക്കി തിരിച്ചറിഞ്ഞത് ഇവിടെയാണ് അവിടെയാണ് പുതിയ സമീപനങ്ങളും പുതിയ പങ്കാളിത്തങ്ങളും വികസിപ്പിച്ചെടുത്തത് ഇതാണ് ഡസ്സെ പ്രവിശ്യയിൽ ഞങ്ങൾ വിവിധ തരത്തിലുള്ള 3 കേസുകളെക്കുറിച്ചു ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങൾ മുഴുവൻ പ്രക്രിയയും നോക്കുകയാണെങ്കിൽ ദുരന്ത പ്രവർത്തനങ്ങളിലോ അല്ലെങ്കിൽ അത് സംഭവിച്ചത് എന്തായിരുന്നാലും അത് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും കൈവശമുണ്ടോ അത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നതിലാണ് അതിനാൽ ഇൻഷുറൻസ് രൂപത്തിലായാലും അയാൾക്ക് നഷ്ടപരിഹാരം നൽകാനാകും പിന്നെ വാടകക്കാരന്റെ കാര്യമോ അയാൾക്ക് ഒരു വീടില്ലായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാം അവൻ പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു അതിനാൽ അടിസ്ഥാനപരമായി വാടകയ്ക്ക് താമസിക്കുന്ന ഈ അവഗണിക്കപ്പെട്ട ഗ്രൂപ്പുകളെ എങ്ങനെയെന്ന് നോക്കേണ്ടതുണ്ട് അവരെ അങ്ങനെ പരിഗണിക്കരുത് അങ്ങനെയാണ് തുർക്കിയിൽ ചില ശ്രമങ്ങൾ ഉണ്ടായത് അതെ വീട് നഷ്ടപ്പെട്ട വീട്ടുടമസ്ഥരെ മാത്രമല്ല ഞങ്ങൾ ഇവരെ പരിപാലിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു വിവിധ ഏജൻസികൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ആ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന 7 8 വാടകക്കാർ അല്ലെങ്കിൽ 20 വാടകക്കാർ അപ്പോൾ അവരുടെ കാര്യമോ ആരാണ് ഭവനരഹിതരാകുന്നത് അതിനാൽ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്ന മൂന്ന് കേസ് പഠനങ്ങൾ ആകുന്നു ഒന്ന് ഡസ്സെ സെന്ററിലുള്ള ബെയ്സിലർ ആണ് 168 വീടുകൾ വിതരണം ചെയ്ത റോ ഹൌസ് ആണ് ഇവിടെ പ്രാദേശിക ഗവൺമെന്റുമായുള്ള പങ്കാളിത്തത്തോടൊപ്പം ഒരു അന്താരാഷ്ട്ര എൻജിഒയുണ്ട് ഗോലിയാക്കയിലെ സോളിഡാരിറ്റി ഹൌസിംഗ് പ്രോജക്ട് ഇത് ഏകദേശം 57 വീടുകൾ ഇവിടെയുണ്ട് അന്തർദേശീയവും ദേശീയവുമായ എൻജിഒ പ്ലസ് കമ്മ്യൂണിറ്റി പ്ലസ് സർവ്വകലാശാലകൾ യുഎംസിഒആർ ഡസ്സെ പെരി അർബൻ ഏരിയകൾ ഏകദേശം 220 വീടുകൾ ഇവിടെയുണ്ട് ഇവിടെ ഒരു അന്തർദേശീയ എൻജിഒയും കമ്മ്യൂണിറ്റിയും ആയതിനാൽ സെൽഫ് ഹെൽപ്പ് ഹൌസിംഗ് പ്രോസസിന്റെ മൂന്ന് കോമ്പോസിഷനുകളാണിത് സെൽഫ് ഹെൽപ്പ് ഹൌസിംഗ് പ്രോസസിനേപ്പറ്റി ഞങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യുന്നതായിരിക്കും ആദ്യ സന്ദർഭത്തിൽ ഡസ്സെ ബെയ്സിലർ ഹൌസുകൾ സോഷ്യൽ ഹൌസിംഗ് പ്രോജക്റ്റ് ഇന്റർനാഷണൽ ബ്ലൂ ക്രസന്റ് ഡസ്സ് മുനിസിപ്പാലിറ്റിയുടെ സഹകരണത്തിൽ ഏർപ്പെടുകയും 168 വീടുകളുടെ ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് ഏകദേശം ഒരു വലിയ തുക സംഭാവന ചെയ്യാൻ കത്തോലിക്കാ ദുരിതാശ്വാസ സേവനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു സർക്കാർ പദ്ധതികളിൽ യോഗ്യതയില്ലാത്ത പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കായുള്ള ഒരു കമ്മ്യൂണിറ്റി സെന്റർ യാഥാർഥ്യമാക്കുകയായിരുന്നു ഉദ്ദേശം അതിനാൽ നിങ്ങൾക്കറിയാവുന്ന ഈ ചെറിയ പ്രവർത്തകരെയാണ് ഇവിടെയുള്ള പ്രോജക്റ്റ് മാനേജുമെന്റിൽ അവർ കേന്ദ്രീകരിച്ചത് അവർ ഒരു വശത്ത് പ്രാദേശിക സർക്കാർ ഭൂമി പിന്തുണയും ഭൂമി അനുവദിക്കലും നോക്കുന്നു അന്താരാഷ്ട്ര പിന്തുണയും നോക്കുന്നു എന്നാൽ ഇന്റെർണൽ സപ്പോർട്ട് കാത്തലിക് റിലീഫ് സർവീസുകളുടെ സാമ്പത്തിക സഹായാവും പുനർനിർമ്മാണത്തിലൂടെ സ്ഥിരമായ വീടുകൾ നോക്കുന്നു ലൊക്കേഷൻ പ്ലാനുകൾ ആർക്കിടെക്ചറൽ സ്ട്രക്ചറൽ സാധ്യതാ പഠനങ്ങൾ എന്നിവ വികസിപ്പിക്കുന്നതിനുള്ള സാങ്കേതിക പിന്തുണ സകാര്യ സർവ്വകലാശാല നൽകുന്നു അതേസമയം പ്രോജക്റ്റിന് ശേഷം ദീർഘകാല വികസനത്തിനായി ഒരു പ്രാദേശിക എൻജിഒ രൂപീകരിച്ചു ഈ പ്രക്രിയയിൽ കമ്മ്യൂണിറ്റികൾ യഥാർത്ഥത്തിൽ പങ്കെടുത്തത് ഇവിടെയാണ് ഈ പ്രക്രിയയിൽ പോലും എന്താണ് സംഭവിച്ചത് എന്നത് പ്രധാനമാണ് ചില വിമർശനങ്ങൾ നിരീക്ഷിച്ചു പ്രോജക്റ്റിന്റെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് കുടുംബങ്ങൾ വലിയ തോതിൽ വിട്ടുനിന്നിരുന്നു നിർമ്മാണത്തിൽ അവർ എന്ത് ജോലി ചെയ്യും അവരുടെ വീട് എങ്ങനെ പൂർത്തിയാക്കും എന്നതിന് പുറമെ ഇതാണ് പ്രധാനപ്പെട്ടത് കാരണം അവർ വ്യത്യസ്ത ഉപജീവന പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരായിരിക്കാം അതിനാൽ വാസ്തവത്തിൽ ഈ മുഴുവൻ പ്രക്രിയയിലും അവർക്ക് പൊതു പങ്കാളിത്തം ഉണ്ടാവണമെന്നില്ല അവർക്ക് സാങ്കേതിക പരിശീലനം ലഭിക്കേണ്ടതുണ്ട് എന്നാൽ അവർക്ക് അത് അറിയില്ലായിരിക്കാം രണ്ടാമത്തെ വശം ഈ പദ്ധതി 168 വീടുകൾക്ക് വേണ്ടി മാത്രമാണ് വിഭാവനം ചെയ്തത് എന്നാൽ പദ്ധതിയുടെ ഭാഗമാകാൻ അപേക്ഷിച്ച ഏകദേശം 1377 പേർ ഈ പ്രക്രിയയിൽ കാണുക മുഴുവൻ പ്രക്രിയയിലും വാടക ഗ്രൂപ്പായ ചെറിയ അഭിനേതാപ്രവർത്തകർക്കായി ഇത്തരത്തിലുള്ള പ്രോജക്റ്റ് വിതരണം ചെയ്യാൻ നിങ്ങൾ നോക്കുമ്പോൾ ഓഹരി ഉടമകളുടെ എണ്ണം നിങ്ങൾ എങ്ങനെ തീരുമാനിക്കും അതിനാൽ സാമ്പത്തികം മുതൽ തുടങ്ങി അപേക്ഷാ ഫോമുകൾ പൂരിപ്പിക്കുന്നതിന് മുന്നോട്ട് വരാൻ ഈ ഗുണഭോക്തൃ ഗ്രൂപ്പുകളെല്ലാം അവർ ക്ഷണിച്ചു തുടങ്ങി താഴ്ന്ന സാമ്പത്തിക പശ്ചാത്തലവും അവരുടെ നിലവിലുള്ള സാഹചര്യങ്ങളും അങ്ങനെ തുടങ്ങിയാണ് മുൻഗണന നൽകിയത് അതാണ് 168 പേർ മാത്രം അതിനാൽ മറ്റുള്ളവരുടെ കാര്യമോ 1300 പേർ അപേക്ഷിച്ചു ആരാണ് ഉടമകളല്ലാത്തവർ ഈ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ പദ്ധതികൾക്കൊപ്പം പോകാൻ നിര്ബന്ധിദരാകുന്നില്ല കൂടാതെ ദീർഘകാലാടിസ്ഥാനത്തിൽ സെറ്റിൽമെന്റിന്റെ മാനേജുമെന്റ് സാമ്പത്തിക ഉത്തരവാദിത്തങ്ങൾ കാണുന്നതിന് ഗുണഭോക്താക്കൾ ഒരു റസിഡന്റ്സ് അസോസിയേഷൻ ബെയ്ഡർ ആരംഭിച്ചു എന്നാൽ സമൂഹത്തിന്റെ ഓർഗനൈസേഷൻ നിലനിർത്താൻ സഹായിക്കുന്നതിന് ദീർഘകാലത്തേക്ക് അവർക്ക് സുസ്ഥിരമായ ഇൻപുട്ട് ആവശ്യമാണ് യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് ഇത് ഒരു ഡെലിവറി മാത്രമല്ല ദീർഘകാല ഇൻപുട്ട് നോക്കേണ്ടതുണ്ട് ഇത് എങ്ങനെ നിലനിർത്താം എന്ന് നാം അറിയണം രണ്ടാമത്തെ കേസ് ഇവിടെ ടുസ്സ് ഗോൾക്കായ സോളിഡാരിറ്റി ഹൌസ് പ്രോജക്റ്റ് ഒരു സോളിഡാരിറ്റി ഹൌസ് പ്രോജക്റ്റായ Imece Evleri Projesi ഇത് നിർമ്മിച്ചത് സോളിഡാരിറ്റി AVS നുള്ള സന്നദ്ധപ്രവർത്തകരുടെ കൂട്ടായ്മയും ഗെൽഡർലാൻഡ് എയ്ഡ് ഓഫ് ടർക്കി ഓർഗനൈസേഷന്റെ പങ്കാളിത്തത്തോടെയുമാണ് അതിനാൽ അവർക്ക് വിദേശത്ത് താമസിക്കുന്ന ആളുകളുണ്ട് അവർ ചില ഫണ്ടുകൾ ശേഖരിച്ചു കൂടാതെ അവർക്ക് ഭവന പദ്ധതിയുമായി പങ്കാളിത്തമുണ്ട് ഓരോ ഗ്രാമവും കൂടാതെ ഗോല്യാക്ക മേയറും ഗ്രാമത്തലവനുമായി അവർ ഒരു പ്രത്യേക ധാരണാപത്രം സ്ഥാപിച്ചു പദ്ധതിയുടെ സ്ഥലം തകർത്ത വീടുകളുടെ അതേ ഗ്രാമത്തിന്റെ അതിർത്തിയിൽ തന്നെ നമ്പർ 1 വീടുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചു നിർമ്മാണ രീതിയിൽ ഗ്രാമങ്ങൾ നിർമ്മാണത്തിൽ സജീവമായി പങ്കെടുക്കും ഗ്രാമവാസികൾ ഓരോ കുടുംബത്തിലും ഒരാളെങ്കിലും അതിന്റെ ഭാഗമാകണമെന്ന് അവർ പറഞ്ഞു നിർമ്മാണ പ്രക്രിയയുടെയും മാനേജ്മെന്റിന്റെയും ഫണ്ട് ഗവൺമെന്റ് നൽകുന്ന ക്രെഡിറ്റുകളും സംഭാവനകളിൽ നിന്നുള്ള ക്രെഡിറ്റുകളും ആണ് ഇവയെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഗ്രാമവാസിയായ AVS അഡ്മിനിസ്ട്രേഷാൻ പ്രതിനിധിയുo ഗെൽഡർലാൻഡ് പ്രതിനിധി സംഘവും ഗവർണർഷിപ്പും ചേർന്നാണ് അതിനാൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാളുടെ ഒരു ഗ്രൂപ്പുണ്ട് ഒന്ന് ഫണ്ടിംഗ് ഏജൻസിയിൽ നിന്ന് ഒന്ന് അന്താരാഷ്ട്ര എൻജിഒ സ്പോൺസറിൽ നിന്നും പ്രാദേശിക സർക്കാരുകളിൽ നിന്നും ഓരോ ഗ്രൂപ്പ് ഈ കൺസ്ട്രക്ഷൻ പ്രോസസ്സ് മാനേജ്മെന്റിൽ ഉണ്ട് അതിനാൽ അവരെല്ലാം ഷെയേഡ് ഫണ്ട് മാനേജ്മെന്റ് പ്രക്രിയയും നോക്കുന്നു പ്രോജക്ടിന്റെ ഫഗമായി ഡിസിഷൻ മേക്കിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ താമസക്കാരെയും തുല്യ വ്യവസ്ഥകളിലും മേൽനോട്ടത്തിലും പൊതു തൊഴിലാളി മന്ത്രാലയം വാഗ്ദാനം ചെയ്യുന്ന എൻജിനീയർമാരുടെയും വാസ്തുശില്പികളുടെയും ചേമ്പറുകളുടെ പ്രതിനിധികളിൽ നിന്ന് ഒരു സ്വതന്ത്ര നിയന്ത്രണ സമിതി മേൽനോട്ടം വഹിക്കുകയും ചെയ്യും അതിനാൽ ഇവിടെ ഒരാൾക്ക് നോക്കാൻ കഴിയുന്നത് എന്താണ് ഇവിടെ അവർ ഉപഗ്രൂപ്പുകളാക്കി മാറ്റി ഓരോ കുടുംബവും പുനർനിർമ്മാണത്തിനായി ഒരാളെ സംഭാവന ചെയ്യാൻ പോകുന്നു ഒരു ഗ്രാമം ചില കമ്മിറ്റികൾ രൂപീകരിക്കും തുടർന്ന് ആ മുഴുവൻ പ്രക്രിയയിലും ഗ്രാമ നേതാക്കൾ അന്താരാഷ്ട്ര എൻജിഒയുമായും ദേശീയ എൻജിഒയുമായും സഹകരിച്ച് പ്രവർത്തിക്കുന്നത് കാണാം സർക്കാർ എന്ന നിലയിൽ പൊതുമരാമത്ത് സേവന മന്ത്രാലയം അതിന്റെ സാമ്പത്തിക പ്രക്രിയയും പരിശോധിച്ചു ഭരണപരമായ വശം പങ്കിട്ടു നിർവഹിക്കുന്നു അതിനാൽ ഇവിടെ ഇത് രണ്ടറ്റത്തുനിന്നും നോക്കുന്നു ഇവിടെ സർവ്വകലാശാലകൾ മിമർ സിനാൻ യൂണിവേഴ്സിറ്റി തുർക്കിയിലെ ഏറ്റവും പഴയ സർവകലാശാല ഭവന പദ്ധതിക്ക് വിവിധ സാങ്കേതിക ഇൻപുട്ടുകൾ നൽകിയിട്ടുള്ള പങ്കാളികൾ പ്രോജക്റ്റ് പ്രൊഫഷണലുകൾ ആർക്കിടെക്റ്റുകൾ എഞ്ചിനീയർമാർ എന്നിവരും ഉൾപ്പെടുന്നു മറുവശത്ത് നിങ്ങൾക്ക് ടർക്കിഷ് എഞ്ചിനീയർമാരുടെയും ആർക്കിടെക്റ്റുമാരുടെയും ചേംബർ ഉണ്ട് അതിനാൽ ആ രീതിയിൽ ഗ്രാമവാസികൾ ടീമുകളായി വീണ്ടും ഈ ഭവന നിർമ്മാണ പ്രക്രിയയുടെ ഭാഗമാകുന്നു അതിനാൽ അവർ വികസിപ്പിച്ച രണ്ട് ഘട്ടങ്ങളുള്ള വീടുകൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചുവന്ന ഡോട്ടും രണ്ടാം ഘട്ടവും അങ്ങനെ തന്നെ കാണുന്നു ഇത് ഒരു തരം സാമൂഹിക ഭൂപടമാണ് കൂടാതെ ഗ്രാമവാസികളും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും അങ്ങനെ അവർ സ്വന്തം വീട് പണിയുമ്പോൾ അത് സ്വയം ആശ്രയിച്ചു പ്രവർത്തിക്കുന്നു ഈ പ്രക്രിയയിൽ അവർ താൽക്കാലിക ഷെൽട്ടറുകളിൽ താമസിച്ചു അത് അവർക്ക് സ്റ്റേജ് 1 ലും സ്റ്റേജ് 2 ലും അവരുടെ കുറെ ആസൂത്രണത്തിന് ഒരുതരം ആത്മവിശ്വാസം നൽകി കൂടാതെ പൂർത്തീകരിച്ച വീടുകൾ എങ്ങനെ കാണപ്പെടുന്നു എന്നതാണ് ഇവിടെ സന്നദ്ധ സേവനങ്ങൾ ഒരു മാതൃക ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഉപയോക്താക്കൾക്ക് എങ്ങനെ പങ്കെടുക്കാം എന്ന് ഈ മൂന്ന് കാരണങ്ങൾ അവർ തീരുമാനിച്ചു ഒന്ന് ഉപയോക്താക്കൾക്ക് നിർമ്മാണത്തിന്റെ എല്ലാ വശങ്ങളും നിരീക്ഷിക്കാൻ കഴിയും അങ്ങനെ ഘടനയുടെയും സുരക്ഷയുടെയും വിശ്വാസ്യത ഉറപ്പുനൽകുന്നു അതിനാൽ അവർ നിർമ്മാണത്തിന്റെ എല്ലാ വശങ്ങളും നിരീക്ഷിക്കേണ്ടതുണ്ട് ഇത് ഓരോ വീടിന്റെയും ചെലവ് കുറയ്ക്കുകയും പിന്നീട് പ്രോജക്റ്റ് വഴി നിർമ്മിക്കാൻ കഴിയുന്ന വീടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾ ആദ്യം ജോലിയിൽ പങ്കെടുക്കുന്നതിനാൽ അവർ ചെയ്തത് വിദഗ്ധ തൊഴിലാളികളെ കൊണ്ടുവന്നു ക്രമേണ പരിശീലനത്തിന് പിന്തുണ നൽകി പ്രാദേശിക കമ്മ്യൂണിറ്റികൾ അത് എങ്ങനെ നിർമ്മിക്കപ്പെട്ടുവെന്ന് അവർ മനസ്സിലാക്കാൻ തുടങ്ങി അങ്ങനെ ഗ്രാമീണരിൽ ചിലർക്ക് നിർമ്മാണ വൈദഗ്ദ്ധ്യം പരിശീലിപ്പിക്കാൻ കഴിഞ്ഞു അങ്ങനെ അവർക്ക് ക്രമേണ നിർമ്മാണ വ്യവസായത്തിലേക്ക് പ്രവേശിക്കാനും അതുവഴി തൊഴിൽ പ്രക്രിയയ്ക്ക് ഒരു ഗേറ്റ്വേ തുറക്കാനും കഴിഞ്ഞു മൂന്നാമത്തെ കേസിൽ തുർക്കിയിലെ ദുരിതാശ്വാസത്തിനായുള്ള യുണൈറ്റഡ് മെത്തഡിസ്റ്റ് കമ്മിറ്റി ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്ന സ്ഥിരമായ ഭവന നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നു ഇത് 220 ദുർബല കുടുംബങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഇത് സ്ത്രീകളും പ്രായമായവരും വികലാംഗരും കമ്മ്യൂണിറ്റികളിൽ ധാരാളം ആശ്രിതരുള്ള കുടുംബങ്ങളെയും ആണ് കേന്ദ്രീകരിച്ചത് അതിനാൽ ഇത് വളരെ കൃത്യമായി ഫോക്കസ് ചെയ്തു നേരത്തെയുള്ള സന്ദർഭത്തിൽ അവർ സങ്കൽപ്പിക്കുക വ്യത്യസ്ത പ്രവർത്തകരുടെ വേഷം അതായത് ഒരു വൃദ്ധൻ അയാൾക്ക് ഒരു മേൽനോട്ടക്കാരനായി പ്രവർത്തിക്കാം അല്ലെങ്കിൽ അയാൾക്ക് ഒരു കാവൽക്കാരനെപ്പോലെയും പ്രവർത്തിക്കാം അതുപോലെ ഒരു ചെറുപ്പക്കാരെപ്പോലെയും പ്രവർത്തിച്ചു സമാനമായി വ്യത്യസ്തമായ ജോലികൾ ചെയ്യാം അവർക്ക് ഒരു സ്ത്രീയാകാം അങ്ങനെ വ്യത്യസ്ത ഗ്രൂപ്പുകൾ നിയുക്തമാക്കപ്പെട്ടു വ്യത്യസ്ത വശങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു കുറെ ആൾക്കാർ ഭക്ഷണം തയ്യാറാക്കുന്നു ഈ പ്രക്രിയ മുഴുവൻ മനസ്സിലാക്കി അവർ പരസ്പരം സഹകരിച്ചു പ്രവർത്തിക്കുന്നു എന്ന് നമുക്കറിയാം സ്ഥലങ്ങളിൽ പ്രവേശനമില്ലാത്ത കുടുംബങ്ങൾ അവർക്ക് എന്തെങ്കിലും സാങ്കേതിക സഹായവും മെറ്റീരിയലും മാത്രമേ ആവശ്യമുള്ളൂ അതിനാൽ ഭൂമിയുണ്ടെങ്കിലും വീട് പണിയാൻ സാങ്കേതിക സഹായം ആവശ്യമുള്ളവർ ഇവിടെ പ്രാദേശിക ഭവന രീതികളിലേക്ക് മടങ്ങുകയും വെർനകുലാർ ഹൌസിങ് സമ്പ്രദായത്തിലേക്ക് മടങ്ങുകയും ചെയ്തു ഓട്ടോമൻ കാലത്തു ഉപയോഗിച്ചിരുന്ന പ്രാദേശിക പരമ്പരാഗത സാങ്കേതികവിദ്യകൾ സ്വീകരിക്കുകയും ചെയ്തു അവർ ഒറ്റപ്പെട്ട ഭവന പദ്ധതികൾ വികസിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതിനാൽ ഈ പ്രക്രിയയിൽ ഭൌതിക വശം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു മാത്രമല്ല സമൂഹ ഇടപഴകലും വളരെ സജീവമായിരുന്നു ഇവിടെ അവർ പ്രത്യേക ദുർബല വിഭാഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പ്രത്യേകിച്ച് സ്ത്രീ നാഥ കുടുംബങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന വലിയ കുടുംബങ്ങൾ അഥവാ അംഗങ്ങൾ കൂടുതലുള്ള കുടുംബങ്ങൾ അവയിൽ വികലാംഗർ മുതലായവർ ഉൾപ്പെടുന്നു സ്വയം സഹായ ഭവന പുനർനിർമ്മാണത്തിന്റെ മൂന്ന് വ്യത്യസ്ത രീതികളെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ് അവസാനം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രക്രിയയ്ക്കുള്ളിൽ പോലും സർക്കാർ ആക്ടോ സർക്കാർ ഇച്ഛയോ സംസ്ഥാനത്തിന്റെ ഇഷ്ടമല്ല ആവശ്യക്കാരിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല അതാണ് പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത് അതിനാൽ ഈ ചെറിയ അഭിനേതാക്കൾക്ക് സൌകര്യമൊരുക്കാൻ വ്യത്യസ്ത പങ്കാളിത്തങ്ങൾ പ്രവർത്തിക്കുകയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഇവിടെയാണ് അതിനാൽ ഒരു ചെറിയ കഥയിലൂടെ പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നു ഒരിക്കൽ മുയലും ആമയും ഒരു ഓട്ടമത്സരം നടത്തി ഒരു മിതമായ ഓട്ടവും സാവധാനം നടക്കുന്ന ആമ അത് വളരെ സാവധാനത്തിൽ നടക്കുന്നു മുയൽ ഏകദേശം എത്താൻ പോകുന്നു അവൾ വിചാരിച്ചു ശരി ഞാൻ കുറച്ച് നേരം ഉറങ്ങാം ആമ നാഴികക്കല്ല് പിന്നിട്ടു അപ്പോഴേക്കും മുയൽ ഉണർന്നിരുന്നു രണ്ടാം വട്ടം ഞാൻ ഉറങ്ങാൻ പാടില്ലാത്ത സമയമാണെന്ന് മുയലിന് മനസ്സിലായത് അതിനാൽ ഇത്തവണ മുയൽ വിജയിച്ചു മൂന്നാം ഭാവം വെള്ളം ഓട്ടം വെള്ളത്തിലായിരുന്നു പക്ഷേ ഇപ്പോൾ മുയൽ നീന്തില്ല പക്ഷേ ആമ നീന്തി അവൾ ലക്ഷ്യം മറികടന്നു ഇപ്പോൾ നാലാം ഭാവത്തിൽ ആമയും മുയലും ഒരു ധാരണയിലെത്തി മുയൽ ആമയുടെ മുകളിൽ ഇരുന്നു അവർ ഒരുമിച്ച് ഒരു നാഴികക്കല്ലിൽ എത്തി അതിനാൽ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വിവിധ ഏജൻസികൾ തമ്മിലുള്ള പങ്കാളിത്തം ഒരുമിച്ച് കൊണ്ടുവരാനും യഥാർത്ഥത്തിൽ ഉടമസ്ഥൻ നയിക്കുന്ന സമ്പ്രദായങ്ങൾ മെച്ചപ്പെടുത്താനും കഴിയും ഏജൻസി നയിക്കുന്ന സമ്പ്രദായങ്ങൾ ഇവിടെയാണ് പങ്കാളിത്തവും സഹകരണവും ആവശ്യമാണ് തുർക്കിയിലെ സ്വയം സഹായ ഭവന പുനർനിർമ്മാണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വളരെ നന്ദി